ഹൌ ടു ക്യാച്ച് ആൻ ഇൻവെൻഷൻ കണ്ടെത്തലുകളെ എങ്ങെനെ മനസിലാക്കാം ഹൌ ടു ക്യാച്ച് ആൻ ഇൻവെൻഷൻ കണ്ടെത്തലുകളെ എങ്ങെനെ മനസിലാക്കാം കണ്ടെത്തൽ മനസിലാക്കാനായി ആദ്യം അതിന്റെ വെളിപ്പെടുത്തലിലേക്ക് നോക്കുക കണ്ടെത്തൽ മനസിലാക്കാനായി ആദ്യം അതിന്റെ വെളിപ്പെടുത്തലിലേക്ക് നോക്കുക കണ്ടെത്തലുകൾ എന്നത് പേറ്റന്റ് അനുവദിക്കപ്പെടേണ്ടതിനായി നടത്തപ്പെടുന്ന വെളിപ്പെടുത്തലുകൾ മാത്രമാണ് കണ്ടെത്തലുകൾ എന്നത് പേറ്റന്റ് അനുവദിക്കപ്പെടേണ്ടതിനായി നടത്തപ്പെടുന്ന വെളിപ്പെടുത്തലുകൾ മാത്രമാണ് വെളിപ്പെടുത്തൽ പേറ്റന്റ് ചെയ്യപ്പെടാവുന്നതാണെങ്കിൽ നമ്മൾ അതിനെ ഒരു പേറ്റന്റിബിൾ ഇൻവെൻഷൻ എന്ന് വിളിക്കുന്നു വെളിപ്പെടുത്തൽ പേറ്റന്റ് ചെയ്യപ്പെടാവുന്നതാണെങ്കിൽ നമ്മൾ അതിനെ ഒരു പേറ്റന്റിബിൾ ഇൻവെൻഷൻ എന്ന് വിളിക്കുന്നു വെളിപ്പെടുത്തലിനായി നമ്മൾ എവിടെയാണ് നോക്കേണ്ടത് വെളിപ്പെടുത്തലിനായി നമ്മൾ എവിടെയാണ് നോക്കേണ്ടത് വെളിപ്പെടുത്തലിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യം കണ്ടത്തെലിനെ കുറിച്ചുള്ള രേഖാമൂലമുള്ള ഒരു വെളിപ്പെടുത്തൽ അതിന്റെ ഭൌതികസാക്ഷാത്കാരത്തിൽ നിന്നും വ്യത്യസ്തമാണ് എന്നതാണ് വെളിപ്പെടുത്തലിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യം കണ്ടത്തെലിനെ കുറിച്ചുള്ള രേഖാമൂലമുള്ള ഒരു വെളിപ്പെടുത്തൽ അതിന്റെ ഭൌതികസാക്ഷാത്കാരത്തിൽ നിന്നും വ്യത്യസ്തമാണ് എന്നതാണ് കണ്ടെത്തലിന്റെ ഭൌതികസാക്ഷാത്കാരം അതിന്റെ രേഖാമൂലമുള്ള വെളിപ്പെടുത്തലിൽ നിന്ന് വത്യാസപ്പെട്ടിരിക്കുന്നു കണ്ടെത്തലിന്റെ ഭൌതികസാക്ഷാത്കാരം അതിന്റെ രേഖാമൂലമുള്ള വെളിപ്പെടുത്തലിൽ നിന്ന് വത്യാസപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് ഒരു വിദൂര നിയന്ത്രണ ഉപകരണം ഇങ്ങനെയാണ് കാണപ്പെടുന്നത് ഉദാഹരണത്തിന് ഒരു വിദൂര നിയന്ത്രണ ഉപകരണം ഇങ്ങനെയാണ് കാണപ്പെടുന്നത് അതിന് ഒരു ഇന്റർഫേസ് ഉണ്ട് ചില ബട്ടണുകളുണ്ട് അതിന് ഒരു ഇന്റർഫേസ് ഉണ്ട് ചില ബട്ടണുകളുണ്ട് ഇതാണ് അതിന്റെ സാധാരണ രൂപം ഇതാണ് അതിന്റെ സാധാരണ രൂപം ഇത് അതിന്റെ പ്രത്യക്ഷമായ ഭൌതികസാക്ഷാത്ക്കാര രൂപമാണ് ഇത് അതിന്റെ പ്രത്യക്ഷമായ ഭൌതികസാക്ഷാത്ക്കാര രൂപമാണ് അതേസമയം ഒരു കണ്ടെത്തലിനെ രേഖാമൂലം വിവരിക്കുമ്പോൾ നമ്മൾ അതിനെ ഒരു വെളിപ്പെടുത്തൽ എന്ന് വിളിക്കുന്നു അതേസമയം ഒരു കണ്ടെത്തലിനെ രേഖാമൂലം വിവരിക്കുമ്പോൾ നമ്മൾ അതിനെ ഒരു വെളിപ്പെടുത്തൽ എന്ന് വിളിക്കുന്നു ഇവിടെ നമുക്ക് ഒരു കണ്ടെത്തൽ കാണാൻ കഴിയും ഇവിടെ നമുക്ക് ഒരു കണ്ടെത്തൽ കാണാൻ കഴിയും അതിന്റെ പേറ്റന്റ് സൂക്ഷ്മതയുള്ള പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന ഏത് ഉപകരണത്തെയും നിയന്ത്രിക്കാൻ ഒരു ഉപയോക്താവിനെ സഹായിക്കുന്ന ആജ്ഞകൾക്ക് ഇൻഫ്രാറെഡ് വഴിയോ ബ്ലൂ ടൂത്ത് വഴിയോ മറ്റ് വയർലസ് പേഴ്സണൽ നെറ്റ്വർക്ക് ടെക്നോളജി ഉപയോഗിച്ചോ പ്രതികരിക്കുന്ന ഒരു സാർവത്രിക വിദൂരനിയന്ത്രണ ഉപകരണത്തെ വിവരിക്കുന്നു അതിന്റെ പേറ്റന്റ് സൂക്ഷ്മതയുള്ള പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന ഏത് ഉപകരണത്തെയും നിയന്ത്രിക്കാൻ ഒരു ഉപയോക്താവിനെ സഹായിക്കുന്ന ആജ്ഞകൾക്ക് ഇൻഫ്രാറെഡ് വഴിയോ ബ്ലൂ ടൂത്ത് വഴിയോ മറ്റ് വയർലസ് പേഴ്സണൽ നെറ്റ്വർക്ക് ടെക്നോളജി ഉപയോഗിച്ചോ പ്രതികരിക്കുന്ന ഒരു സാർവത്രിക വിദൂരനിയന്ത്രണ ഉപകരണത്തെ വിവരിക്കുന്നു അതിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ കണ്ട എഴുതപെട്ട വിവരണം അതിന്റെ ഭൌതിക സാക്ഷാത്കാര രൂപത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അതിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ കണ്ട എഴുതപെട്ട വിവരണം അതിന്റെ ഭൌതിക സാക്ഷാത്കാര രൂപത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സാധാരണയായി നമ്മൾ ഒരു വെളിപ്പെടുത്തൽ ഐ ഡി എഫ് എന്ന് ചുരുക്കിപ്പറയുന്ന കണ്ടെത്തൽ വെളിപ്പെടുത്തൽ ഫോമിലൂടെയാണ് നടത്തുന്നത് സാധാരണയായി നമ്മൾ ഒരു വെളിപ്പെടുത്തൽ ഐ ഡി എഫ് എന്ന് ചുരുക്കിപ്പറയുന്ന കണ്ടെത്തൽ വെളിപ്പെടുത്തൽ ഫോമിലൂടെയാണ് നടത്തുന്നത് കണ്ടെത്തൽ വെളിപ്പെടുത്തൽ ഫോമിൽ കണ്ടെത്തൽ നടത്തിയ വ്യക്തി പൂരിപ്പിക്കേണ്ട വിവിധ കോളങ്ങളുണ്ടാകും കണ്ടെത്തൽ വെളിപ്പെടുത്തൽ ഫോമിൽ കണ്ടെത്തൽ നടത്തിയ വ്യക്തി പൂരിപ്പിക്കേണ്ട വിവിധ കോളങ്ങളുണ്ടാകും അതിൽ വിജ്ഞാന മണ്ഡലം എന്താണെന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം പശ്ചാത്തലസംബന്ധിയായ ചോദ്യങ്ങൾ ഉണ്ടാകാം നിലവിലുള്ള കണ്ടെത്തലുകളുമായി എന്തെങ്കിലും സാമ്യത പുലർത്തുന്നുണ്ടോ അതിന്റെ പ്രയോജന വശങ്ങൾ കണ്ടത്തെലിന്റെ വിശേഷ ഗുണങ്ങൾ മുതലായവയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം അതിൽ വിജ്ഞാന മണ്ഡലം എന്താണെന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം പശ്ചാത്തലസംബന്ധിയായ ചോദ്യങ്ങൾ ഉണ്ടാകാം നിലവിലുള്ള കണ്ടെത്തലുകളുമായി എന്തെങ്കിലും സാമ്യത പുലർത്തുന്നുണ്ടോ അതിന്റെ പ്രയോജന വശങ്ങൾ കണ്ടത്തെലിന്റെ വിശേഷ ഗുണങ്ങൾ മുതലായവയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം അതായത് കണ്ടെത്തൽ വെളിപ്പെടുത്തൽ ഫോമിൽ കണ്ടെത്തൽ നടത്തിയ വ്യക്തി നിരവധി വിവരങ്ങൾ പൂരിപ്പിക്കേണ്ടതായിത്തുണ്ട് അതായത് കണ്ടെത്തൽ വെളിപ്പെടുത്തൽ ഫോമിൽ കണ്ടെത്തൽ നടത്തിയ വ്യക്തി നിരവധി വിവരങ്ങൾ പൂരിപ്പിക്കേണ്ടതായിത്തുണ്ട് എത്ര പ്രാധാന്യം നിറഞ്ഞതാണ് വെളിപ്പെടുത്തൽ എത്ര പ്രാധാന്യം നിറഞ്ഞതാണ് വെളിപ്പെടുത്തൽ മുൻ ചരിത്രം തിരയാൻ വെളിപ്പെടുത്തൽ ഉപയോഗിക്കാം മുൻ ചരിത്രം തിരയാൻ വെളിപ്പെടുത്തൽ ഉപയോഗിക്കാം വെളിപ്പെടുത്തൽ ഫലപ്രദമായാൽ അത് പേറ്റന്റെബിലിറ്റി സെർച്ച് റിപ്പോർട്ട് മികച്ചതാക്കാൻ ഇടയാക്കും വെളിപ്പെടുത്തൽ ഫലപ്രദമായാൽ അത് പേറ്റന്റെബിലിറ്റി സെർച്ച് റിപ്പോർട്ട് മികച്ചതാക്കാൻ ഇടയാക്കും അതായത് മുൻ ചരിത്രം തിരയാൻ വെളിപ്പെടുത്തൽ ഉപയോഗിക്കാം മാത്രമല്ല പേറ്റൻറ് വിവരണം ഡ്രാഫ്റ്റുചെയ്യാനും ഇത് ഉപയോഗിക്കാം കാരണം കണ്ടെത്തൽ നടത്തിയ വ്യക്തിയുടെ വെളിപ്പെടുത്തലാണ് ആത്യന്തികമായി പേറ്റന്റ് വിവരണത്തിലേക്ക് നയിക്കപ്പെടുന്നത് അതായത് മുൻ ചരിത്രം തിരയാൻ വെളിപ്പെടുത്തൽ ഉപയോഗിക്കാം മാത്രമല്ല പേറ്റൻറ് വിവരണം ഡ്രാഫ്റ്റുചെയ്യാനും ഇത് ഉപയോഗിക്കാം കാരണം കണ്ടെത്തൽ നടത്തിയ വ്യക്തിയുടെ വെളിപ്പെടുത്തലാണ് ആത്യന്തികമായി പേറ്റന്റ് വിവരണത്തിലേക്ക് നയിക്കപ്പെടുന്നത് പേറ്റന്റ്സ് ആക്ടിന്റെ ഭാഷയിൽ ഒരു കണ്ടെത്തലിനെ പൂർണമായും അതിന്റെ പ്രതേകതകൾ ഉൾകൊണ്ടുകൊണ്ടും വിവരിക്കുക എന്നതാണ് ഒരു വെളിപ്പെടുത്തലിലൂടെ ആവശ്യപ്പെടുന്നത് പേറ്റന്റ്സ് ആക്ടിന്റെ ഭാഷയിൽ ഒരു കണ്ടെത്തലിനെ പൂർണമായും അതിന്റെ പ്രതേകതകൾ ഉൾകൊണ്ടുകൊണ്ടും വിവരിക്കുക എന്നതാണ് ഒരു വെളിപ്പെടുത്തലിലൂടെ ആവശ്യപ്പെടുന്നത് അതിന്റെ എല്ലാ വിശദാംശങ്ങളും ഉൾകൊള്ളുന്ന ഒരു വിവരണമായിരിക്കണം എന്നർത്ഥം അതിന്റെ എല്ലാ വിശദാംശങ്ങളും ഉൾകൊള്ളുന്ന ഒരു വിവരണമായിരിക്കണം എന്നർത്ഥം അത് പ്രവർത്തനത്തെയും ഉപയോഗത്തെയും വിവരിക്കണം മാത്രമല്ല പ്രകടന രീതിയെയും അതിലെ മികച്ച സംവിധാനത്തെയും വിവരിക്കണം അത് പ്രവർത്തനത്തെയും ഉപയോഗത്തെയും വിവരിക്കണം മാത്രമല്ല പ്രകടന രീതിയെയും അതിലെ മികച്ച സംവിധാനത്തെയും വിവരിക്കണം ഏറ്റവും മികച്ച രീതി എന്നാൽ ആ കണ്ടെത്തൽ ഏറ്റവും മികവോടെ അവതരിപ്പിക്കുന്ന രീതിയായിരിക്കണം അവകാശവാദത്തിൽ ഉന്നയിക്കേണ്ടത് എന്നർത്ഥം ഏറ്റവും മികച്ച രീതി എന്നാൽ ആ കണ്ടെത്തൽ ഏറ്റവും മികവോടെ അവതരിപ്പിക്കുന്ന രീതിയായിരിക്കണം അവകാശവാദത്തിൽ ഉന്നയിക്കേണ്ടത് എന്നർത്ഥം ആ അവകാശവാദം വ്യക്തവും സംക്ഷിപ്തവുമായിരിക്കണം മാത്രമല്ല അത് വെളിപ്പെടുത്തിയതിനെ അടിസ്ഥാനമാക്കിയുമായിരിക്കണം ആ അവകാശവാദം വ്യക്തവും സംക്ഷിപ്തവുമായിരിക്കണം മാത്രമല്ല അത് വെളിപ്പെടുത്തിയതിനെ അടിസ്ഥാനമാക്കിയുമായിരിക്കണം പേറ്റന്റ് വിവരണത്തിലെ അവകാശവാദം സാധാരണയായി അതിന്റെ സമാപന ഭാഗങ്ങളിൽ ആയിരിക്കും കാണപ്പെടുക പേറ്റന്റ് വിവരണത്തിലെ അവകാശവാദം സാധാരണയായി അതിന്റെ സമാപന ഭാഗങ്ങളിൽ ആയിരിക്കും കാണപ്പെടുക അതിൽ ഒരു പേറ്റന്റ് അല്ലെങ്കിൽ കണ്ടെത്തലിൻമേൽ അവകാശവാദം ഉന്നയിക്കുന്നു അതിൽ ഒരു പേറ്റന്റ് അല്ലെങ്കിൽ കണ്ടെത്തലിൻമേൽ അവകാശവാദം ഉന്നയിക്കുന്നു ആ അവകാശവാദം വെളിപ്പെടുത്തിയ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കുകയും വേണം ആ അവകാശവാദം വെളിപ്പെടുത്തിയ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കുകയും വേണം അതിനാൽ വെളിപ്പെടുത്തൽ പ്രധാനമാണ് കാരണം അവകാശവാദം വെളിപ്പെടുത്തലിനെ അടിസ്ഥാനമാക്കിയാണ് ഡ്രാഫ്റ്റ് ചെയ്യപെടുകെയോ രൂപപ്പെടുത്തുകെയോ ചെയ്യുന്നത് അതിനാൽ വെളിപ്പെടുത്തൽ പ്രധാനമാണ് കാരണം അവകാശവാദം വെളിപ്പെടുത്തലിനെ അടിസ്ഥാനമാക്കിയാണ് ഡ്രാഫ്റ്റ് ചെയ്യപെടുകെയോ രൂപപ്പെടുത്തുകെയോ ചെയ്യുന്നത് കണ്ടെത്തൽ നടത്തിയ വ്യക്തിയിൽ നിന്ന് കണ്ടെത്തൽ എന്തെന്ന് മനസിലാക്കാനുള്ള ഒരു മാർഗമാണ് കണ്ടെത്തൽ വെളിപ്പെടുത്തൽ ഫോം എന്ന് നമ്മൾ നേരത്തെ മനസിലാക്കിയതാണ് കണ്ടെത്തൽ നടത്തിയ വ്യക്തിയിൽ നിന്ന് കണ്ടെത്തൽ എന്തെന്ന് മനസിലാക്കാനുള്ള ഒരു മാർഗമാണ് കണ്ടെത്തൽ വെളിപ്പെടുത്തൽ ഫോം എന്ന് നമ്മൾ നേരത്തെ മനസിലാക്കിയതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ഒരു സാധാരണ കണ്ടുപിടുത്ത വെളിപ്പെടുത്തൽ ഫോം ഉണ്ട് നിങ്ങൾക്ക് ഇത് പരിശോധിക്കാം ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ഒരു സാധാരണ കണ്ടുപിടുത്ത വെളിപ്പെടുത്തൽ ഫോം ഉണ്ട് നിങ്ങൾക്ക് ഇത് പരിശോധിക്കാം ഈ ഫോം കണ്ടെത്തൽ നടത്തിയ വ്യക്തി പൂരിപ്പിക്കേണ്ടതുണ്ട് ഈ ഫോം കണ്ടെത്തൽ നടത്തിയ വ്യക്തി പൂരിപ്പിക്കേണ്ടതുണ്ട് അതിൽ വ്യക്തിപരമായ വിവരങ്ങൾ നൽകേണ്ട ഒരു ഭാഗമുണ്ട് അതിൽ വ്യക്തിപരമായ വിവരങ്ങൾ നൽകേണ്ട ഒരു ഭാഗമുണ്ട് അതിൽ കണ്ടെത്തലിന്റെ പേര് കണ്ടെത്തൽ മുഖ്യമായും നടത്തിയ വ്യക്തിയുടെ പേര് മുതലായവ നൽകണം അതിൽ കണ്ടെത്തലിന്റെ പേര് കണ്ടെത്തൽ മുഖ്യമായും നടത്തിയ വ്യക്തിയുടെ പേര് മുതലായവ നൽകണം ഒന്നിലധികം പേര് ചേർന്നാണ് കണ്ടെത്തൽ നടത്തിയതെങ്കിൽ അവരുടെ ദേശീയത സംബന്ധിച്ച വിവരങ്ങളും നൽകേണ്ടതായിട്ടുണ്ട് ഒന്നിലധികം പേര് ചേർന്നാണ് കണ്ടെത്തൽ നടത്തിയതെങ്കിൽ അവരുടെ ദേശീയത സംബന്ധിച്ച വിവരങ്ങളും നൽകേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ താമസസ്ഥലം ഔദ്യോഗിക പദവി വിലാസം മുതലായവ അനുസരിച്ചാണ് ഫയലിംഗ് നിയമങ്ങൾ നിർണയിക്കപ്പെടുക നിങ്ങളുടെ താമസസ്ഥലം ഔദ്യോഗിക പദവി വിലാസം മുതലായവ അനുസരിച്ചാണ് ഫയലിംഗ് നിയമങ്ങൾ നിർണയിക്കപ്പെടുക കണ്ടെത്തലിന്റെ പേറ്റന്റ് ശീർഷകത്തെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടത് കണ്ടെത്തലിന്റെ പേറ്റന്റ് ശീർഷകത്തെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടത് അതിൽ കണ്ടെത്തൽ ഏത് സാങ്കേതിക മേഖലയിലാണ് ഉൾക്കൊള്ളുന്നത് എന്നത് സംബന്ധിച്ച ഒരു ലഖുവിവരണം അതിന്റെ പുതുമ കണ്ടെത്തലിന്റെ സവിശേഷത മുതലായവയാണ് നൽകേണ്ടത് അതിൽ കണ്ടെത്തൽ ഏത് സാങ്കേതിക മേഖലയിലാണ് ഉൾക്കൊള്ളുന്നത് എന്നത് സംബന്ധിച്ച ഒരു ലഖുവിവരണം അതിന്റെ പുതുമ കണ്ടെത്തലിന്റെ സവിശേഷത മുതലായവയാണ് നൽകേണ്ടത് പാർട്ട് സി യിൽ പൊതു വെളിപ്പെടുത്തൽ മുൻകാല ചരിത്രം മുതലായവ സംബന്ധിച്ച വിവരങ്ങളാണ് പാർട്ട് സി യിൽ പൊതു വെളിപ്പെടുത്തൽ മുൻകാല ചരിത്രം മുതലായവ സംബന്ധിച്ച വിവരങ്ങളാണ് ശാസ്ത്രീയ പ്രസിദ്ധീകരണങ്ങളോ പേറ്റന്റ് ഡാറ്റാബേസുകളോ ഉണ്ടോയെന്നും അവയ്ക്ക് പേറ്റന്റുകൾ അനുവദിച്ചിട്ടുണ്ടോ എന്നും അതിലൂടെ അറിയാൻ കഴിയും ശാസ്ത്രീയ പ്രസിദ്ധീകരണങ്ങളോ പേറ്റന്റ് ഡാറ്റാബേസുകളോ ഉണ്ടോയെന്നും അവയ്ക്ക് പേറ്റന്റുകൾ അനുവദിച്ചിട്ടുണ്ടോ എന്നും അതിലൂടെ അറിയാൻ കഴിയും ഭാഗം ഡി ഇത് അധികമായി എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് നല്കാനുള്ളതാണ് ഭാഗം ഡി ഇത് അധികമായി എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് നല്കാനുള്ളതാണ് ചില വെളിപ്പെടുത്തൽ ഫോമുകൾ മാർക്കറ്റ് വാലുവേഷൻ ലൈസൻസിങ് തുടങ്ങിയ വിവരങ്ങൾ ആവശ്യപ്പെടാറുണ്ട് ചില വെളിപ്പെടുത്തൽ ഫോമുകൾ മാർക്കറ്റ് വാലുവേഷൻ ലൈസൻസിങ് തുടങ്ങിയ വിവരങ്ങൾ ആവശ്യപ്പെടാറുണ്ട് ഈ കണ്ടെത്തൽ എന്ത് പ്രശ്നത്തിനാണ് പരിഹാരം വരുത്തിയത് എന്താണ് നിലവിലുള്ള പരിഹാരങ്ങൾ നിലവിലുള്ള പരിഹാരങ്ങൾ വിജയകരമായിരുന്നോ നിങ്ങളുടെ കണ്ടെത്തൽ ഏത് പ്രശ്നത്തെ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് ഈ കണ്ടെത്തൽ എന്ത് പ്രശ്നത്തിനാണ് പരിഹാരം വരുത്തിയത് എന്താണ് നിലവിലുള്ള പരിഹാരങ്ങൾ നിലവിലുള്ള പരിഹാരങ്ങൾ വിജയകരമായിരുന്നോ നിങ്ങളുടെ കണ്ടെത്തൽ ഏത് പ്രശ്നത്തെ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് നിലവിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ അത് എത്രത്തോളം ശ്രമിക്കുന്നു നിലവിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ അത് എത്രത്തോളം ശ്രമിക്കുന്നു മുതലായ ചോദ്യങ്ങളാണുള്ളത് മുതലായ ചോദ്യങ്ങളാണുള്ളത് ഇത് നിങ്ങളുടെ കണ്ടുപിടുത്തത്തിന് പൊതുവായുള്ള സവിശേഷതകളാണ് ഇത് നിങ്ങളുടെ കണ്ടുപിടുത്തത്തിന് പൊതുവായുള്ള സവിശേഷതകളാണ് നിങ്ങളുടെ കണ്ടെത്തലിനെ മറ്റുള്ളവയിൽ നിന്ന് വേർതിരിക്കുന്ന നിർദ്ദിഷ്ട സവിശേഷതകളെയാണ് കണ്ടെത്തൽ സവിശേഷതകൾ എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ കണ്ടെത്തലിനെ മറ്റുള്ളവയിൽ നിന്ന് വേർതിരിക്കുന്ന നിർദ്ദിഷ്ട സവിശേഷതകളെയാണ് കണ്ടെത്തൽ സവിശേഷതകൾ എന്ന് വിളിക്കുന്നത് അവ പേറ്റന്റ് ചെയ്യപ്പെടേണ്ടതും അവകാശവാദം ഉന്നയിക്കപ്പെടേണ്ടവയും ആണ് അവ പേറ്റന്റ് ചെയ്യപ്പെടേണ്ടതും അവകാശവാദം ഉന്നയിക്കപ്പെടേണ്ടവയും ആണ് അതിനാൽ പൊതുവായ സവിശേഷതകളും നിർദ്ദിഷ്ട സവിശേഷതകളും മനസിലാക്കുന്നത് നിർണായകമാണ് കാരണം അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ ഇൻപുട്ട് ഉപയോഗിക്കുകയും നിങ്ങളുടെ അവകാശവാദം തയ്യാറാക്കുകയും ചെയ്യും അതിനാൽ പൊതുവായ സവിശേഷതകളും നിർദ്ദിഷ്ട സവിശേഷതകളും മനസിലാക്കുന്നത് നിർണായകമാണ് കാരണം അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ ഇൻപുട്ട് ഉപയോഗിക്കുകയും നിങ്ങളുടെ അവകാശവാദം തയ്യാറാക്കുകയും ചെയ്യും കണ്ടത്തെലിന്റെ പ്രവർത്തനപരമായ ഒരു ഉദാഹരണമായി ഒരു പ്രോട്ടോടൈപ്പ് ആയിട്ട് പ്രവർത്തിക്കുന്നു കണ്ടത്തെലിന്റെ പ്രവർത്തനപരമായ ഒരു ഉദാഹരണമായി ഒരു പ്രോട്ടോടൈപ്പ് ആയിട്ട് പ്രവർത്തിക്കുന്നു സാധ്യമല്ലെങ്കിൽ ഒരു വിഷ്വൽ പ്രാതിനിധ്യം അല്ലെങ്കിൽ ഒരു ഡ്രോയിംഗിലുടെ ആകാം സാധ്യമല്ലെങ്കിൽ ഒരു വിഷ്വൽ പ്രാതിനിധ്യം അല്ലെങ്കിൽ ഒരു ഡ്രോയിംഗിലുടെ ആകാം അതിനോടൊപ്പം കണ്ടുപിടുത്തം വാണിജ്യപരമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത് വിദേശത്ത് ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ മുതലായവയും ഇതിൽ ഉൾപ്പെടുന്നു അതിനോടൊപ്പം കണ്ടുപിടുത്തം വാണിജ്യപരമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത് വിദേശത്ത് ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ മുതലായവയും ഇതിൽ ഉൾപ്പെടുന്നു എന്തെങ്കിലും സംവാദമുണ്ടോ അല്ലെങ്കിൽ ഭാവിയിൽ വാങ്ങാൻ സാധ്യതയുള്ളവർക്ക് ലൈസൻസായിട്ടോ എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടോ എന്നും അറിയേണ്ടതുണ്ട് എന്തെങ്കിലും സംവാദമുണ്ടോ അല്ലെങ്കിൽ ഭാവിയിൽ വാങ്ങാൻ സാധ്യതയുള്ളവർക്ക് ലൈസൻസായിട്ടോ എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടോ എന്നും അറിയേണ്ടതുണ്ട്